ഈ സ്ഥിരാങ്കം b വിലയിരുത്താൻ ഞാൻ ഇവിടെ എന്റെ ഗ്രീൻ ഡിഫറൻഷ്യൽ Green's differential സമവാക്യത്തിന്റെ നിർവചനം എടുത്ത് ഒരു സംയോജനം ചെയ്യാൻ പോകുന്നു 1D 2D 3D എന്നിവ ഏത് തരത്തിലുള്ള ഒരു അവിഭാജ്യമായിരിക്കും 2D ഇന്റഗ്രൽ അതിനാൽ ഇത് S ds ന് മുകളിൽ ഒരു അവിഭാജ്യമായിരിക്കും ഇത് ഏത് തരത്തിലുള്ള S ആയിരിക്കണം എന്റെ ഏകത്വം എവിടെ വിദ്യാർത്ഥി ഉത്ഭവം ഉത്ഭവം അതിനാൽ ഞാൻ അത് ശരിയായി ഉൾപ്പെടുത്തണം ഇത് ചെയ്യുന്നതിനുള്ള ഏറ്റവും എളുപ്പമുള്ള സമമിതി മാർഗം റേഡിയസ് എപ്സിലോൺ എപ്സിലോണിന്റെ ഒരു വൃത്തം കുറച്ച് ചെറിയ സംഖ്യയാണ് ഇത് സംയോജിപ്പിക്കുക എന്നതാണ് അതിനാൽ ഞാൻ ഈ പ്രതലത്തെ S infinity എന്ന് വിളിക്കും ക്ഷമിക്കണം S infinity എന്നല്ല Sε അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അതിനാൽ ഈ ഇന്റഗ്രലുകൾ വിലയിരുത്തുന്നതിന് കുറച്ച് പരിചരണം ആവശ്യമാണ് ഇവിടെയുള്ള ആദ്യത്തെ ടേം അത് സമന്വയിപ്പിക്കുമ്പോൾ ഞാൻ അതിനെ ടേം എ എന്നും രണ്ടാമത്തെ ടേമിനെ ഞാൻ ടേം ബി എന്നും മൂന്നാം ടേമിനെ ഞാൻ സി എന്നും വിളിക്കാൻ പോകുന്നു അതിനാൽ നമ്മൾ വ്യക്തിഗതമായി ഒരു ബി സിക്ക് മുകളിലൂടെ പോയി ബി ലഭിക്കുന്നതിന് ഒരു ബജറ്റിംഗ് നടത്തും അതാണ് നമ്മൾ ശരിയാക്കാൻ പോകുന്ന സമീപനം അതിനാൽ നമുക്ക് a യുടെ ആദ്യ പദം നോക്കാം അതിനാൽ അത് പോകുന്നു ഇപ്പോൾ ഞാൻ ഒരു അവിഭാജ്യ ചിഹ്നം എഴുതുന്ന കാര്യം പറയുന്നു അത് നമുക്ക് സ്ഥിരതയുള്ളതായിരിക്കട്ടെ ∫∇2Gds എഴുതും പോളാർ കോർഡിനേറ്റുകളിൽ എന്താണ് ds വിദ്യാർത്ഥി ആർ ഡി ആർ അതിനാൽ ഇത് ശരിയാണ് എന്തെങ്കിലും θ ആശ്രിതത്വം ഉണ്ടോ വിദ്യാർത്ഥി ഇല്ല അതിനാൽ dθ ന് മേലുള്ള ആ അവിഭാജ്യഘടകം നമുക്ക് ഉടൻ തന്നെ 2π എന്ന് എഴുതാം അതിനാൽ ഞാൻ ഇത് 2π ∫∇2G rdr എന്നിങ്ങനെ എഴുതാൻ പോകുന്നു അതാണ് എനിക്ക് വിലയിരുത്തേണ്ടത് ഇതാണ് ഇത് കൃത്യമായി ലഭിക്കുമെന്ന് നിങ്ങൾക്ക് എഴുതാം അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ∇·∇G ds ന്റെ ഇന്റഗ്രൽ ചെയ്യുമ്പോൾ വെക്റ്റർ കാൽക്കുലസിന്റെ ഏത് സിദ്ധാന്തമാണ് മനസ്സിൽ വരുന്നത് ഇത് ഒരു ക്ലോസ്ഡ് വോളിയത്തിന് കീഴിലോ 2D അടച്ച പ്രതലത്തിലോ ഉള്ള ഒരു വ്യതിചലനമാണ് അപ്പോൾ ഏത് സിദ്ധാന്തം വിദ്യാർത്ഥി വ്യതിചലന സിദ്ധാന്തം അതിനാൽ വ്യതിചലന സിദ്ധാന്തം ഈ ഡെൽ ഡോട്ട് എന്തെങ്കിലുമൊക്കെ പുറത്തേക്കുള്ള ഫ്ലക്സ് ആക്കി മാറ്റും അതിനാൽ ഇത് ഏത് വെക്ടറിന്റെ ബാഹ്യ പ്രവാഹമായി മാറും ∇G · nˆ dl അതിനാൽ നമ്മൾ ഇവിടെ ശ്രമിക്കുന്നത് ഒരു റൂട്ട് ആയിരുന്നു അതിനെ r θ എന്നിങ്ങനെ വിഭജിച്ചു മറ്റൊരു റൂട്ട് ഈ റൂട്ടാണ് ഈ റൂട്ട് അൽപ്പം കൂടുതൽ അവബോധജന്യമാണെന്ന് തോന്നുന്നു കാരണം ഞാൻ ആ അവിഭാജ്യത നേരിട്ട് കുറച്ചതിനാൽ ഇവിടെ എന്താണ് ഉള്ളത് വിദ്യാർത്ഥി ആർ ക്യാപ് കൃത്യമായി rˆ അതിനാൽ ഉദാഹരണത്തിന് nˆ എന്നത് എല്ലായ്പ്പോഴും പുറത്തേക്ക് എളുപ്പത്തിൽ ചൂണ്ടുന്നു അതിനാൽ എന്റെ nˆ എന്റെ rˆ ന് തുല്യമാണ് ∇Gin പോളാർ കോർഡിനേറ്റുകളുടെ നിർവചനം എന്താണ് ധ്രുവീയ കോർഡിനേറ്റുകളിൽ ഇത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ∇G ആദ്യ പദം ലളിതമാണ് വിദ്യാർത്ഥി ഡൌ ജി ∂G∂r ഒപ്പം rˆ ഒപ്പം വിദ്യാർത്ഥി 1 by r വിദ്യാർത്ഥി ∂G∂r അതിനാൽ nˆ rˆ ആണെന്ന് നിങ്ങൾക്കറിയാം θˆ യ്ക്ക് rˆ യുമായി എന്ത് ബന്ധമാണുള്ളത് വിദ്യാർത്ഥി ലംബമായി ലംബമായ rˆ θˆ എന്നിവ പരസ്പരം ലംബമായി അതിനാൽ ഈ അവിഭാജ്യത്തിൽ നിന്ന് ഒരു പദം മാത്രമേ നിലനിൽക്കൂ അത് അങ്ങനെയായിരിക്കും വിദ്യാർത്ഥി ഡെൽ ജി ഡെൽ ആർ അതിനാൽ ഇത് അവിഭാജ്യ ∂G∂r വലത് മാറും കൂടാതെ നമുക്ക് ഇവിടെ മറ്റെന്താണ് ഉള്ളത് ഇത് ഒരു dl ആയി മാറും ഇപ്പോൾ ഞാൻ തിരഞ്ഞെടുക്കാൻ പോകുന്നത് ε 1 പോലെ ε വളരെ ചെറുതാണ് സിംഗുലാരിറ്റി ഉൾപ്പെടുത്തിയാൽ മാത്രം മതി അതിനാൽ ഞാൻ ε വളരെ ചെറുതായി സൂക്ഷിക്കാൻ പോകുന്നു അതിനാൽ ഇവിടെ മറ്റൊരു ഏകദേശ കണക്ക് ഞാൻ നിങ്ങളോട് പറയും അതായത് ഞാൻ ഉപയോഗിക്കുമെന്ന് അതിനാൽ H0 അതാണ് എനിക്ക് അവകാശമുള്ള ഫംഗ്ഷൻ x വളരെ ചെറുതായിരിക്കുമ്പോൾ ഇതിന് ഒരു അസിംപ്റ്റോട്ടിക് ഫോം നിലവിലുണ്ട് അത് J0 ഏകദേശം 1 ആണ് x എന്നത് 1 നേക്കാൾ വളരെ കുറവും Y0 ഏകദേശം 2π log ആകുമ്പോൾ വീണ്ടും ഇത് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന വിവരങ്ങൾ മാത്രമാണ് പ്രത്യേക പ്രവർത്തനങ്ങളുടെ വിവിധ ഗണിതശാസ്ത്ര ഹാൻഡ് ബുക്കുകളിൽ ഇത് വളരെ നന്നായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുത്തതായി എന്താണ് ചെയ്യേണ്ടത് ഈ Y 0 രണ്ടാമത്തേതിൽ നിങ്ങൾക്ക് ഒരു ആകൃതിയുടെ സിംഗുലാരിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുമ്പോൾ ഞാൻ ഈ ഫോം ഉപയോഗിക്കും ഇത് മൈനസ് അനന്തതയിലേക്ക് പോകുന്നു അങ്ങനെയാണെങ്കിൽ അത് സിംഗുലാരിറ്റി നന്നായി ക്യാപ്ചർ ചെയ്യുന്നു കൂടാതെ J0 ഒരു പരിമിതമായ അളവ് 1 അതിനാൽ ഈ രണ്ട് പദങ്ങളിൽ നിന്ന് എന്താണ് നിലനിൽക്കുന്നത് അത് നമുക്ക് ഇവിടെ എഴുതാം അതിനാൽ ∂G∂r അതാണ് എനിക്ക് ചെയ്യേണ്ടത് അതിനാൽ ∂∂r 1 2πlog dl അതാണ് ഞാൻ ചെയ്യേണ്ടത് G യുടെ ഫോം മാറ്റിസ്ഥാപിച്ചു അതിനാൽ ആദ്യ ടേം ഇല്ലാതാകും എനിക്ക് എന്ത് ലഭിക്കും ഓ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഉണ്ടായിരിക്കണം ഇവിടെ അത് ഒരു − j ആയിരിക്കണം കാരണം ഞാൻ H എന്നത് J − jY ആണ് അതിനാൽ ആദ്യത്തെ ടേം ഇല്ലാതാകുന്നു ഞാൻ ddr എടുക്കുമ്പോൾ രണ്ടാമത്തെ ടേം എനിക്ക് എന്ത് തരും r മായി ബന്ധപ്പെട്ട് log ന്റെ ഡെറിവേറ്റീവ് എന്താണ് k അതിനാൽ ഞാൻ dl ന് മുകളിൽ − 2jkπ 1kr സംയോജിപ്പിക്കാൻ പോകുന്നു ഞാൻ ഇപ്പോൾ ഈ ഇന്റഗ്രൽ ചെയ്യുന്നത് ഉപരിതല മാത്രമാണ് ഈ പ്രതലത്തിൽ r ന്റെ മൂല്യം വരിയിൽ സ്ഥിരമാണ് അപ്പോൾ ഈ ഇന്റഗ്രൽ എന്തിനെയാണ് വിലയിരുത്തുന്നത് ഇന്റഗ്രൽ dl എനിക്ക് 2π തരും വിദ്യാർത്ഥി ആർ r r എന്നിവ ε തുല്യമാണ് അതിനാൽ നമ്മൾ ഇത് − 2jkπ 1kr എന്ന് 2πr ആയി എഴുതാം r ൽ മൂല്യനിർണ്ണയം ε ന് തുല്യമാണ് എനിക്ക് k എന്നതിൽ അവശേഷിക്കുന്നത് π പോകുന്നു r പോകുന്നു r ചെറുതാണ് എന്നാൽ പരിമിതമാണ് അതിനാൽ എനിക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും r റദ്ദാക്കാം അതിനാൽ എനിക്ക് അവശേഷിക്കുന്നത് വിദ്യാർത്ഥി − 4j − 4j അത് വ്യക്തമാണ് അതിനാൽ ഞാൻ അർത്ഥമാക്കുന്നത് ഓർക്കുക ഇതിന്റെ അർത്ഥം ∂G∂r ആണ് സർക്കിൾ അതിർത്തിയിൽ വലതുവശത്തുള്ള എല്ലാ പോയിന്റുകളിലും മൂല്യനിർണ്ണയം നടത്തുന്നു വ്യത്യാസമില്ല അതിനാൽ dl ന് മേലുള്ള ഈ സംയോജനം 2πr r വ്യത്യാസപ്പെടുന്നില്ല r വ്യത്യസ്തമാണെങ്കിൽ ഇവിടെ r സ്ഥിരമായത് വ്യത്യസ്തമായിരിക്കും അതിനാൽ ഇത് ഡി തീറ്റയുടെ ഒരു അവിഭാജ്യഘടകം പോലെയാണ് അതിനാൽ എനിക്ക് ഒരു − 4j ലഭിക്കും അതിനാൽ a എന്ന പദം − 4j ആയി വിലയിരുത്തുന്നു തുടർന്ന് നമ്മൾ b എന്ന പദത്തിലേക്ക് വരുന്നു ഇപ്പോൾ b എന്ന പദം നമുക്ക് നമ്മുടെ ഈ r dr dθ ഏകദേശം ഉപയോഗിക്കാം വിദ്യാർത്ഥി സർ ഉണ്ട് വിദ്യാർത്ഥി b ഉം ശരിയാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് ഒരു ബി ഉണ്ടാകും അതെ G ക്ക് എല്ലായിടത്തും ഒരു ബി ഉണ്ട് അത് ശരിയാണ് ബി ഇവിടെ വരും വിദ്യാർത്ഥി − 4jb അതെ വളരെ നല്ലത് അതിനാൽ ഇവിടെ ഒരു ബി ഉണ്ട് ഇവിടെ ഒരു ബി ഉണ്ട് അതിനാൽ നമുക്ക് ബി പദത്തിലേക്ക് വരാം എനിക്ക് k2∫G r dr dθ ഉണ്ട് വീണ്ടും എനിക്ക് കഴിയും ഇത് 2πk2∫G r dr എന്ന് എഴുതുക വിദ്യാർത്ഥി സാർ dl ന്റെ മേൽ 2πr തരൂ എന്നതിൽ അത് ഇവിടെ അവിഭാജ്യമാണ് ഇതാണ് നമ്മൾ വിലയിരുത്താൻ തുടങ്ങിയത് അതിനാൽ ഇവിടെ അധിക 2π ഇല്ല അതിനാൽ വീണ്ടും ഞാൻ എന്തുചെയ്യണം എനിക്ക് G യ്ക്ക് ഒരു പ്രത്യേക ഫോം ഉണ്ട് ആ അവകാശം ഞാൻ പകരം വയ്ക്കാം അതിനാൽ 2πk2 ഇന്റഗ്രൽ r 1 − j2π log ഇത്തവണ b dr എന്നത് മറക്കരുത് അതാണ് എന്റെ G b H എന്നത് J − jY ഇതാണ് Y ആണ് ഇവിടെ ഇല്ല നമ്മൾ ഉപയോഗിച്ചിട്ടില്ല ഈ സമീപനം നമ്മൾ പാലിച്ചിട്ടില്ല നമ്മൾ ഈ സമീപനം പിന്തുടർന്നു അവിടെ വ്യതിചലന സിദ്ധാന്തം പരിവർത്തനം ചെയ്യുന്നു അതിനാൽ നിങ്ങൾ പരാമർശിക്കുന്ന 2π ആണ് അതെ നമ്മൾ ആ സമീപനം ഇവിടെ ഉപയോഗിച്ചിട്ടില്ല ഈ പദത്തിന് നമ്മൾ ആ സമീപനമാണ് ഉപയോഗിച്ചത് അതിനാൽ നമ്മൾ ഇവിടെ ഉപയോഗിച്ച സമീപനമാണിത് നമുക്ക് അത് ഇവിടെ എഴുതാം ഇപ്പോൾ ഞാൻ ഈ പ്രയോഗം നോക്കുമ്പോൾ നമുക്ക് പുറത്തുള്ള എല്ലാ സ്ഥിരതകളും ശേഖരിക്കാം അതിനാൽ 2πk2b എനിക്ക് പുറത്തെടുക്കാം ഒടുവിൽ എനിക്ക് rdr എന്നതിന്റെ ഒരു ഇന്റഗ്രൽ ഉണ്ട് തുടർന്ന് എനിക്ക് ഒരു ഇന്റഗ്രൽ ഉണ്ട് അതിനാൽ 0 മുതൽ ε വരെയും തുടർന്ന് എനിക്ക് j2π r log dr എന്നൊരു പദമുണ്ട് അവയാണ് രണ്ട് പദങ്ങൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാ കണക്കും ചെയ്യാതെ ഇവിടെയുള്ള ആദ്യത്തെ ടേമിന് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇന്റഗ്രൽ rdr എനിക്ക് r22 മൂല്യനിർണ്ണയം ε ഉം 0 ഉം നൽകും ഞാൻ പരിധി ε എടുക്കാൻ പോകുന്നു അവസാനം 0 ആയി മാറുന്നു അതിനാൽ ഞങ്ങൾ പരിധി ε 0 ലേക്ക് എടുക്കാൻ പോകുന്നു അത് എന്തായാലും ശരിയാണ് അതിനാൽ ഇവിടെയുള്ള ഈ ആദ്യ പദം 0 ആയി മാറുന്നു ε 0 ആയി മാറുന്നു അപ്പോൾ ഞാൻ വിഷമിക്കേണ്ട മറ്റൊരു പദം r log എന്നതിന്റെ അവിഭാജ്യമാണ് അപ്പോൾ r log ഇന്റഗ്രൽ സംബന്ധിച്ച് നമുക്ക് എന്തുചെയ്യാൻ കഴിയും നമുക്ക് ഇത് സംയോജിപ്പിക്കാൻ കഴിയും ഈ അവകാശം എങ്ങനെ സംയോജിപ്പിക്കാമെന്ന് നമുക്കറിയാം നമുക്ക് എടുക്കാം ഭാഗങ്ങൾ വലതുവശത്ത് ആദ്യ ടേം സംയോജനമായി log ചെയ്യുക അതിനാൽ ഈ പദം ഇവിടെ നോക്കാൻ ഞാൻ അനുവദിച്ചാൽ അല്ലാത്തപക്ഷം ഞാൻ ഓരോ തവണയും സ്ഥിരാങ്കങ്ങൾ എഴുതേണ്ടി വരും അതിനാൽ ഈ സ്ക്വയർ ബ്രാക്കറ്റ് പദം ഞാൻ ഇവിടെ എഴുതുകയാണ് അതിനാൽ ആദ്യത്തെ പദം രണ്ടാമത്തെ ഫംഗ്ഷൻ ഇന്റഗ്രൽ കൊണ്ട് ഗുണിക്കുന്നു അതിനാൽ ഞാൻ ഇത് ആദ്യ ഫംഗ്ഷനായും ഇത് ഭാഗങ്ങളുടെ സംയോജനത്തിലെ രണ്ടാമത്തെ ഫംഗ്ഷനായും എടുക്കുന്നു അതിനാൽ log എന്നത് രണ്ടാമത്തെ ഫംഗ്ഷന്റെ ഇന്റഗ്രൽ കൊണ്ട് ഗുണിച്ചാൽ അത് 0 നും ε മൈനസ് ഇന്റഗ്രൽ 0 നും ഇടയിൽ മൂല്യനിർണ്ണയം ചെയ്യപ്പെടുന്നതും ആദ്യത്തെ ഫംഗ്ഷന്റെ ε ഡെറിവേറ്റീവിനുമിടയിൽ മൂല്യനിർണ്ണയം ചെയ്യപ്പെടുന്നു അത് എനിക്ക് എന്താണ് നൽകാൻ പോകുന്നത് വിദ്യാർത്ഥി 1 പ്രകാരം 1r k റദ്ദാക്കും r22 dr കൊണ്ട് ഗുണിച്ചാൽ ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് അവിടെയുണ്ട് ഇതിന് തുല്യമാണ് നമുക്ക് ഇവിടെ രണ്ടാമത്തെ ടേം നോക്കാം രണ്ടാമത്തെ ടേം 1 r റദ്ദാക്കാൻ പോകുന്നു എനിക്ക് ഒരു r dr2 സംയോജിപ്പിച്ച് 0 ലേക്ക് ε ആയി സംയോജിപ്പിക്കും സംഭവിക്കാൻ പോകുന്നു ഈ ആൾ ഒടുവിൽ 0 ആകാൻ പോകുന്നു എനിക്ക് അവശേഷിക്കുന്നത് r2log അതിനാൽ r2log എന്നത് 0 ε എന്നിവയിൽ മൂല്യനിർണ്ണയം ചെയ്യേണ്ട പദമാണ് ഈ പ്രവർത്തനത്തെ ഞാൻ എങ്ങനെ വിലയിരുത്തും r 0 ലേക്ക് പോകുന്നതിനാൽ ഈ പരിധി വിലയിരുത്തുന്നതിനുള്ള ചില മാർഗങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടോ വിദ്യാർത്ഥി എൽ ഹോപ്പിറ്റലിന്റെ L'Hopital's നിയമം അതിനാൽ ആദ്യം ഞാൻ അതിനെ 0 ബൈ 0 ഫോമിലേക്ക് കൊണ്ടുവരണം അതിനാൽ ഇത് log1r2 എനിക്ക് അത് ചെയ്യാൻ കഴിയും അതിനാൽ ഒന്നുകിൽ 0 ബൈ 0 ഞാൻ അർത്ഥമാക്കുന്നത് അനന്തത r →0 എന്നാണ് ഏത് വഴി ശരിയായാലും രൂപം അതിനാൽ ഓരോ പദത്തിന്റെയും ഡെറിവേറ്റീവ് അതിനാൽ ആദ്യ പദം 1r ആയി മാറും രണ്ടാമത്തെ ടേം ഞാൻ അർത്ഥമാക്കുന്നത് താഴെയുള്ള പദം ആകും എന്നാണ് വിദ്യാർത്ഥി ആർ ക്യൂബ് − 2r3 − r22 ന് തുല്യമാണ് അപ്പോൾ r ന്റെ പരിധി എന്താണ് വിദ്യാർത്ഥി 0 0 ε ൽ അത് − ε22 ആയിരിക്കും അപ്പോൾ അതിന്റെ സംഭാവന എന്താണ് മൊത്തത്തിൽ 0 അതിനാൽ ഈ കഠിനാധ്വാനങ്ങളെല്ലാം ടേം b ടേം b എന്നത് 0 ന് തുല്യമാണ് അതിനാൽ ഇത് ഞാൻ അർത്ഥമാക്കുന്നത് നമ്മൾ പല തരത്തിലും കടന്നുപോയിട്ടുണ്ട് എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് ഇത് അടിസ്ഥാനപരമായി 12 ാം ക്ലാസ് ഗണിതമാണ് എൽ ഹോപ്പിറ്റലിന്റെ L'Hopital's നിയമവും ഭാഗങ്ങളുടെ സംയോജനവും എല്ലാ അവകാശങ്ങളും അതിനാൽ ഇത് വളരെ സങ്കീർണ്ണമല്ല പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് ശ്രദ്ധിക്കുക G എന്നത് നിങ്ങളുടെ ഗ്രീൻ ഫംഗ്ഷനാണ് അതിന് 0 ൽ ഒരു സിംഗുലാരിറ്റി ഉണ്ടെന്ന് നമ്മൾ ഭൌതികമായി കണ്ടു കാരണം ഒരു ബെസ്സൽ Y ഫംഗ്ഷനിൽ 0 ലേക്ക് പോകുന്നു ഫംഗ്ഷൻ ഏകവചനമാണെങ്കിലും ആ പ്രവർത്തനത്തിന്റെ അവിഭാജ്യഘടകം വിദ്യാർത്ഥി 0 ഈ സാഹചര്യത്തിൽ അതിന്റെ പരിമിതി അതിന്റെ 0 ഇത് ഒരു ഡെൽറ്റ ഫംഗ്ഷൻ പോലെയാണ് ഡെൽറ്റ ഫംഗ്ഷൻ സിംഗുലാരിറ്റിയിൽ നിർവചിച്ചിട്ടില്ല പക്ഷേ അതിന്റെ അവിഭാജ്യമാണ് പരിമിതമായത് സമാനമായ കാര്യം ഇവിടെ സംഭവിച്ചു അതിനാൽ അടുത്തതായി നമ്മൾ ശേഷിക്കുന്ന നിബന്ധനകൾ നോക്കുകയും അവയെല്ലാം ഒരുമിച്ച് ചേർക്കുകയും ചെയ്യും